എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇനി ത്രീ ഫേസ് പവർ അളവാണ് അടിസ്ഥാനപരമായി നമ്മൾ ത്രീ ഫേസ് പവറിന് ടു വാട്ട്മീറ്റർ പ്രക്രിയയാണ് ഉപയോഗിക്കാറുള്ളത് ഇവിടെ ഈ കേസിൽ ത്രീ വാട്ട് മീറ്റർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് പൊതുവേ ഒരു വാട്ട് മീറ്ററിൽ ഒരു കറണ്ട് കോയിലും ഇതൊരു കറണ്ട് കൊയിലാണ് ഇത് ഫേസർ കോയിൽ അല്ലെങ്കിൽ വോൾട്ടേജ് കൊയിലിലാണ് ലോഡ് സന്തുലിതമോ അസന്തുലിതമോ ആവാം ഇവിടെ ഈ വശം M എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഈ വശം L എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് M എന്നതാണ് പ്രധാന വശം അത് വിതരണ വശമാണ് L എന്നത് ലോഡ് വശവുമാണ് ഈ വശത്തെ നമ്മൾ C എന്നും ഈ വശം v എന്നുമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിനെ ഫേസർ കോയിൽ അല്ലെങ്കിൽ വോൾട്ടേജ് കോയിൽ എന്നാണ് വിളിക്കുന്നത് കറണ്ട് കോയിലിന് നിസ്സാരമായ റസിസ്റ്റൻസ് ഒള്ളൂ ഇതാണ് കറണ്ട് കോയിൽ ഈ ഫേസർ കോയിൽ യഥാർത്ഥത്തിൽ വോൾട്ടേജ് കൊയിലാണ് ഇനി ഇത് a ആണെന്നും ഇത് b ആണെന്നും വെക്കുക ഈ ഫേസിലൂടെ ഒഴുകുന്ന കറണ്ട് Ia ആണ് ഇനി ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള വോൾട്ടേജ് അടിസ്ഥാനപരമായി ലൈൻ ടു ലൈൻ വോൾട്ടേജ് ആണ് ഇത് രണ്ട് വാട്ട് മീറ്ററാണ് പക്ഷെ ഇവിടെ ഇത് ത്രീ വാട്ട് മീറ്ററാണ് അതിനാൽ ഈ വാട്ട് മീറ്റർ അനാവശ്യമാണ് ഇത് 0 ആയിരിക്കും ഈ മൂന്ന് വാട്ട് മീറ്ററിന്റേത് നോക്കുകയാണെങ്കിൽ ഈ കണക്ഷനിലെ വാട്ട് മീറ്റർ അടിസ്ഥാനപരമായി പൂജ്യമായിരിക്കും അതിനാൽ രണ്ട് വാട്ട് മീറ്റർ രീതി കൊണ്ടാണ് ലോഡ് അളക്കുക അത് സ്റ്റാർ ആണെങ്കിലോ ഡെൽറ്റ ആണെങ്കിലോ സന്തുലിതമാണെങ്കിലോ അസന്തുലിതമാണെങ്കിലോ ഒന്നും വിഷയമല്ല നമ്മൾ പവർ രണ്ട് വാട്ട് മീറ്റർ രീതി കൊണ്ടാണ് അളക്കുക ഇനി രണ്ട് വാട്ട് മീറ്റർ രീതിയിലേക്ക് പോകുകയാണെങ്കിൽ ഇതാണ് എന്റെ വാട്ട് മീറ്റർ ഇത് പവർ P1 ആണ് ഇവിടത്തെ ലോഡ് സ്റ്റാർ ആണ് ZY ആംഗിൾ Z ആംഗിൾ ആണ് ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് Ia ആണ് ഇതും Ia ആണ് ഇത് ഫേസർ ആണ് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള വോൾട്ടേജ് Vav ആണ് ഇനി ഫേസർ ഡയഗ്രം നോക്കുകയാണെങ്കിൽ ഇത് A മുതൽ N വരെയാണ് ഇവിടെ ലൈൻ കറണ്ട് ഫേസ് കറണ്ട് ആണ് ഇതാണ് എന്റെ VAN കറണ്ട് Ia ആംഗിൾ ലാഗ് ചെയ്യന്നുണ്ട് ഈ ആംഗിൾ ആണ് ഇത് ലൈൻ വോൾട്ടേജ് Vab ആണ് Vab ഫേസ് വോൾട്ടേജിനെ 30o ലീഡ് ചെയ്യുന്നുണ്ട് ഇതാണ് Vab ഈ ആംഗിൾ 30o ആണ് ഇനി ഇവിടത്തെ ലൈൻ വോൾട്ടേജിൽ ഫേസർ കോയിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട് അത് Vab ആണ് ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് Ia യുമാണ് അതിനാൽ Vab ക്കും Ia ക്കും ഇടയിലുള്ള ആംഗിൾ 30o ആണ് അതിനർത്ഥം ഈ വാട്ട് മീറ്ററിന്റെ റീഡിങ് P1 ആണെങ്കിൽ P1 Vab × Ia × cos 30o ഇത് പോലെ മറ്റുള്ള വാട്ട് മീറ്ററുകളിലേക്ക് നമുക്ക് വരാം ഇനി ഈ ഫേസർ ഡയഗ്രത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് Vab ഇത് Van ഈ Vab ക്കും Ia ക്കും ഇടയിലുള്ള ആംഗിൾ 30o ഇനി ഇവിടെ ഈ ഡയഗ്രത്തിൽ ഇത് a എന്നും ഇത് n എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിനിടയിൽ ഒരു കറണ്ട് കോയിൽ ഉണ്ട് അതിനാൽ കറണ്ട് Ia Van ZY അപ്പോൾ ഇവിടെ Ia Van ആംഗിൾ 0o ZY ഇനി ഇവിടെ ഫേസർ ഡയഗ്രത്തിൽ Van എന്നത് VAN ആണ് അതിനാൽ ഇവിടെ ZY Z ആംഗിൾ ആകുമ്പോൾ ഈ Ia Van ആംഗിൾ 0o Z ആംഗിൾ Van Z ആംഗിൾ എന്നാകും അതിനാൽ P1 Vab Ia cos 30o യഥാർത്ഥത്തിൽ Vab എന്നത് ലൈൻ വോൾട്ടേജ് VL ആണ് അതുപോലെ Ia എന്നത് ലൈൻ കറണ്ട് IL ആണ് അപ്പോൾ ഈ Vab Ia cos 30o എന്നതിനെ നമുക്ക് VL IL cos 30o എന്നായിട്ടെഴുതാം ഇത് സമവാക്യം 1 ആണ് ഇതാണ് വാട്ട് മീറ്റർ 1 ന്റെ റീഡിങ് ഇനി വാട്ട് മീറ്റർ 2 നോക്കാം ഈ ഡയഗ്രത്തിലേക്ക് വീണ്ടും നോക്കുകയാണെങ്കിൽ ഇവിടെ വോൾട്ടേജ് Vab യും Vbc യും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ കറണ്ട് Ic ആണ് അപ്പോൾ ഇവിടെ കറണ്ട് Ic ആണ് ഇവിടെ വാട്ട്മീറ്റർ സ്ഥാപിച്ചിട്ടുണ്ട് അതിനാൽ ഈ ലൈൻ കറണ്ട് Ic ആണ് ഇവിടുത്തെ വോൾട്ടേജ് Vcb ആണ് ഇവിടെ ഇതിനകം Vab യും Vbc യും നൽകിയിട്ടുണ്ട് പക്ഷെ ഇത് Vcb ആയിരിക്കും കാരണം ഇത് ഫേസ് c ആണ് അത് ബന്ധിപ്പിച്ചിരിക്കുന്നത് b യിലേക്കാണ് അതിനാൽ വോൾട്ടേജ് Vcb ആണ് അത് പോലെ ഇവിടെ കറണ്ട് Ic ആണ് അതിനാൽ ഇനി മൊത്തം ഫേസർ ഡയഗ്രം വരക്കുകയാണെങ്കിൽ ഇതാണ് ഡയഗ്രം നമ്മൾ ഇതിനകം ഇത് Vab ആണെന്നും ഇത് Van ആണെന്നും ഈ ആംഗിൾ 30o ആണെന്നും കണ്ടിട്ടുണ്ട് ഇത് Ia ആണ് Ia Van ൽ നിന്ന് ആംഗിൾ ലാഗ് ചെയ്യുന്നുണ്ട് സമാനമായി ഇത് Ib ആണ് Ib Vbn ൽ നിന്ന് ആംഗിൾ ലാഗ് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ Ic നോക്കുകയാണെങ്കിൽ Ic യും Vcn ൽ നിന്ന് ആംഗിൾ ലാഗ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് എന്റെ Vbc ഇനി എനിക്ക് Vcb കിട്ടണമെങ്കിൽ 180o ഫേസ് ഷിഫ്റ്റ് നേർ എതിർ വശത്തായിട്ട് നടത്തിയാൽ മതി അപ്പോൾ ഇതാണ് എന്റെ Vcb നമുക്ക് വേണ്ട ആംഗിൾ Vcb യുടെയും Ic യുടെയും ഇടയിലുള്ളതാണ് ഇവിടെ Vab ക്കും Van നും ഇടയിലുള്ള ആംഗിൾ 30o ആണ് ഇവിടെ Vab യും Van ഉം ഉള്ളത് പോലെ തന്നെയാണ് ഇവിടെ Vca യും Vcn ഉം ഉള്ളത് അപ്പോൾ ഇവ തമ്മിലുള്ള ആംഗിളും ഇതുപോലെ 30o ആയിരിക്കും ഇനി ഇത് നോക്കുകയാണെങ്കിൽ ഇതാണ് എന്റെ Vcn ഇതാണ് Ic Vcn നും Ic ക്കും ഇടയിലുള്ള ആംഗിൾ ആണ് കാരണം Ic യിൽ യഥാർത്ഥത്തിൽ കറണ്ട് ഇതിൽ നിന്ന് ലാഗ് ചെയ്യുകയാണ് കാരണം ഇത് സന്തുലിതമായിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ആംഗിൾ ആണ് ഇനി ഈ Vcn നും Vcb ക്കും ഇടയിലുള്ള ആംഗിൾ 30o ആണ് എങ്ങനെയെന്നാൽ Vab ക്കും Van നും ഇടയിലുള്ളത് 30o ആയിരുന്നു അതുപോലെ ഇതിന്റെ നേർ വിപരീതമായിട്ടുള്ളത് എടുക്കുമ്പോൾ ഈ ആംഗിൾ 30o എന്ന് കിട്ടും അതിനർത്ഥം ഈ കാണുന്ന ആംഗിൾ 30 o ആണ് അപ്പോൾ ഈ ആംഗിൾ 30o ആണ് ഇനി രണ്ടാമത്തെ വാട്ട് മീറ്റർ റീഡിങിൽ നിന്ന് P2 Vcb Ic cos ഇതാണ് Vcb ഇത് രണ്ടും അളവുകളാണ് അപ്പോൾ Vcb VL ആണ് Ic IL ആണ് കൂടെ cos 30 o യും ഉണ്ട് ഇതാണ് രണ്ടാമത്തെ വാട്ട് മീറ്ററിന്റെ റീഡിങ് അപ്പോൾ ഇത് Vcb Ic cos 30o അതാണ് ഇവിടെ ഇങ്ങനെ ആക്കിയിട്ടുള്ളത് P2 Vcb Ic cos cos cos ആവും അപ്പോൾ ഇത് cos എന്നത് cos എന്നാകും അല്ലെങ്കിൽ നമുക്ക് P2 ലൈൻ ടു ലൈൻ വോൾട്ടേജിന്റെ അളവായിട്ടും എഴുതാം അതിനാൽ P2 VL IL cos എന്നായിട്ടെഴുതാം ഇത് സമവാക്യം 2 ആണ് അതിനാൽ മൊത്തം വാട്ട് മീറ്റർ റീഡിങ് ലഭിക്കാൻ സമവാക്യം 1 ഉം 2 ഉം കൂട്ടാം അതിനാൽ P1 P2 കൂട്ടിയതിന് ശേഷം ലഘൂകരിച്ചാൽ ഇത് √ 3 VL IL cos അതിനാൽ മൊത്തം പവർ PT √ 3 VL IL cosഎന്നാണ് ഇത് സമവാക്യം 3 ആണ് നമുക്ക് ഗണിതപരമായി കിട്ടുന്നത് എന്തുതന്നെയാണെങ്കിലും വാട്ട് മീറ്ററിന്റെ റീഡിങ് ഒന്ന് തന്നെയായിരിക്കും സമാനമായി നമ്മൾ സമവാക്യം 2 ൽ നിന്ന് സമവാക്യം 1 കുറക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുക P2 P1 VL IL sinഎന്നാണ് ഇനി ഇരു വശവും √ 3 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടുക √ 3 VL IL sin √ 3 എന്നാവും അതിനാൽ QT √ 3 കാരണം √ 3 VL IL sin എന്നത് റിയാക്ടീവ് പവർ ആണ് അതിനാൽ എന്റെ QT √ 3 എന്നാണ് ഇതാണ് സമവാക്യം 4 അതിനാൽ √ 3 VL ILcos P1 P2 എന്നും √ 3 VL IL sin √ 3 എന്നുമാകും അതിനാൽ ഇനി ഇതിനെ ഇത് കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ നമുക്ക് tan √ 3 P2 P1 എന്ന് കിട്ടും ഇനി പോസിറ്റീവാണെങ്കിൽ ഇത് ഇൻഡക്ടീവ് ആയിരിക്കും അതിനർത്ഥം P2 P1 ആണെങ്കിൽ ലോഡിങ് ഇൻഡക്റ്റീവായിരിക്കും അതുപോലെ P2 P1 ആണെങ്കിൽ ലോഡിങ് കപ്പാസിറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ P2 P1 പോസിറ്റീവാണെങ്കിൽ ലോഡിങ് ഇൻഡക്റ്റീവായിരിക്കും അതുപോലെ P2 P1 നെഗറ്റീവാണെങ്കിൽ ലോഡിങ് കപ്പാസിറ്റീവ് ആയിരിക്കും അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് P2 P1 ആണെങ്കിൽ റെസിസ്റ്റീവ് ലോഡ് ആയിരിക്കും അതിനർത്ഥം 0 ആണെങ്കിൽ റെസിസ്റ്റീവ് ലോഡ് ആയിരിക്കും ഇനി P2 P1 ആണെങ്കിൽ അത് ഇൻഡക്റ്റീവ് ലോഡ് ആയിരിക്കും അതുപോലെ P2 P1 ആണെങ്കിൽ ഇത് കപ്പാസിറ്റീവ് ലോഡ് ആയിരിക്കും ഇനി നമുക്ക് ഒരു ഉദാഹരണം നോക്കാം ഇത് ഉദാഹരണം 6 ആണ് ഈ വാട്ട് മീറ്റർ ഞാൻ ബന്ധിപ്പിച്ചിരിക്കുന്നത് W1 W2 W3 എന്നിങ്ങനെയാണ് ഞാൻ ഈ ലോഡ് മനഃപൂർവ്വം അസന്തുലിതമായിട്ടാണ് എടുത്തിട്ടുള്ളത് കാരണം Za 15 Ω ആണ് അതുപോലെ Zb 10 j 5 Ω ആണ് കൂടാതെ Zc Ω ആണ് ഇവിടെ അസന്തുലിതമായത് തന്നിട്ടുണ്ട് ഞാൻ ഈ ഉദാഹരണം മനഃപൂർവ്വം എടുത്തതാണ് ഇത് 15 Ω ഇത് Zc Ω ആണ് അതുപോലെ ഈ വശത്ത് Zb 10 j 5 Ω ആണ് വാട്ട് മീറ്റർ ബന്ധിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് സമാനമായി മറ്റൊരു വാട്ട് മീറ്റർ ബന്ധിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ കേസിൽ ഇത് ന്യൂട്രൽ ആണ് നമുക്ക് അളവ് കാണേണ്ടത് പവർ പാർക്ക് ഫേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇതാണ് കറണ്ട് Ia ഇത് Ib ആണ് ഇത് Ic ആണ് ന്യൂട്രലിലൂടെ കുറച്ച് കറണ്ട് ഒഴുകുന്നുണ്ട് ഇവിടെ ചെയ്യാനുള്ളത് വാട്ട് മീറ്റർ റീഡിങ് പ്രവചിക്കാനും ആഗിരണം ചെയ്ത മൊത്തം പവർ കണ്ടെത്താനുമാണ് ഇവിടെ നമ്മൾ അസന്തുലിതമായതാണ് എടുത്തിട്ടുള്ളത് അതിനാൽ ആദ്യം നമുക്ക് Ia യും Ib യും Ic യും കണ്ടെത്തണം ഇവിടെ a c b സീക്വൻസ് ആണെന്ന് നൽകിയിട്ടുണ്ട് അതിനർത്ഥം സന്തുലിതമായ ഫേസ് വോൾട്ടേജ് 100 volt ആണ് അതിവിടെ നോക്കുകയാണെങ്കിൽ ഇതിൽ തന്നിട്ടുണ്ട് അതിനാൽ ഇവിടെ ഈ a c b സീക്വൻസിൽ ഫേസ് വോൾട്ടേജ് സന്തുലിതമാണ് പക്ഷെ ലോഡ് അസന്തുലിതമാണ് അപ്പോൾ VAN 100 ആംഗിൾ 0o ആണ് കൂടാതെ ഇത് a c b സീക്വൻസാണ് അതിനാൽ VCN is 100 ആംഗിൾ 120o യും VBN 100 ആംഗിൾ 120o യും ആണ് ഇനി ഫേസ് a ക്ക് Ia 100 ആംഗിൾ 0o 15 എന്നാവും അത് 6 67 ആംഗിൾ 0o ആംപിയർ ആയിരിക്കും അതുപോലെ മുകളിലെ ഫേസ് ആയ b യിൽ Ib 100 ആംഗിൾ 120o 10 j 5 8 94 ആംഗിൾ 93 44o ആംപിയർ എന്നായിരിക്കും സമാനമായി ഫേസ് c ക്ക് Ic 100 ആംഗിൾ 120o 6 j 8 10 ആംഗിൾ 66 Ia VAN ഈ കാണുന്നതാണ് അതുപോലെ Ib VBN ഇതാണ് സമാനമായി Ic VCN ഇതുമാണ് ഇതേ രീതിയിൽ നമുക്ക് ഫേസ് തലത്തിലുള്ളതും കണ്ടെത്താവുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ In Ia Ib Ic ഇതിൽ Ia Ib Ic ഇവിടെ നിന്ന് കിട്ടും അത് ചെയ്യുകയാണെങ്കിൽ ഇത് 10 06 ആംഗിൾ 178 4o ആംപിയർ എന്നും വാട്ട് മീറ്റർ റീഡിങ് പവർ P1 VAN Ia cos അതിനർത്ഥം വാട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഇതിനും ഈ ന്യൂട്രലിനും ഇടയിലാണ് അതിനാൽ VAN നും കറണ്ട് Ia യും അതുപോലെ ഇതിനിടയിലെ ആംഗിൾ cos അതിവിടെ എഴുതിയിട്ടുണ്ട് അതിനാൽ ഇത് നോക്കുകയാണെങ്കിൽ P1 VAN Ia cos VAN എന്നത് 0 ആണ് Ia എന്നതും 0 ആണ് അപ്പോൾ ഇത് 667 Watt എന്നാകും സമാനമായി P2 VBN Ib യും കൂടെ cos VBN എന്നത് cos 120o ആണ് അതുപോലെ Ib യുടെ ആംഗിൾ 93 44o ആണ് ഇതൊരു പവർ ഫാക്ടർ ആംഗിൾ ആണ് അതിനാൽ ഇത് 800 Watt ആണ് സമാനമായി P3 VCN Ic cos ഇത് VCN ന്റെ ആംഗിൾ ആണ് അത് 120o ആണ് അതുപോലെ Ic യുടേത് 66 87o ആണ് അപ്പോൾ ഇവിടെ ഇത് 600 Watt ആയിരിക്കും അതിനാൽ മൊത്തത്തിൽ ആഗിരണം ചെയ്ത പവർ PT P1 P2 P3 2067 Watt എന്നതാണ് ഉത്തരം ഇനി മറ്റൊരു കാര്യം PT Ia2 RA Ib 2 RB Ic2 RC ഇനി ഈ കറണ്ടിന്റെയും റെസിസ്റ്റൻസുകളുടെയും മൂല്യങ്ങൾ ചേർക്കുകയാണെങ്കിൽ നമുക്ക് 2067 watt എന്ന് ലഭിക്കും അപ്പോൾ ഈ ഉത്തരങ്ങൾ യോജിക്കുന്നുണ്ട് നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു ഇനി മറ്റൊരു ഉദാഹരണം എടുക്കാം ഫിഗർ 29 ലെ സന്തുലിതമായ ത്രീ ഫേസ് ലോഡിന് ZY 8 j 6 Ω ഈ ലോഡ് 208 വോൾട്ട് ലൈനിലേക്ക് ബന്ധിപ്പിക്കുകയാണെങ്കിൽ W1 ന്റെയും W2 ന്റെയും റീഡിങ്ങുകൾ പ്രവചിക്കുക ഒപ്പം PT യും QT യും അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഫിഗർ 29 ഇതിന്റെ ഡാറ്റ എല്ലാം ഇവിടെ തന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മടങ്ങി വരാം ഇവിടെ Y കണക്റ്റഡ് ലോഡിലെ ഇമ്പിടൻസ് 8 j 6 Ω എന്നും ലൈൻ ടു ലൈൻ വോൾട്ടേജ് 208 volt എന്നും തന്നിട്ടുണ്ട് നമുക്ക് W1 ഉം W2 ഉം PT യും QT യുമാണ് ഇവിടെ നമുക്കറിയാം ZY 8 j 6 10 ആംഗിൾ 36 87 o Ω എന്നാണ് ലൈൻ വോൾട്ടേജ് 208 volt ആണ് അതിനാൽ ലൈൻ കറണ്ട് Y കണക്റ്റഡ് ആയതിനാൽ ഇത് |VP ZY| ഇവിടെ VP ഫേസ് വോൾട്ടേജ് ആണ് അത് പോലെ ലൈൻ വോൾട്ടേജ് 208 വോൾട്ടാണെന്ന് നൽകിയിട്ടുമുണ്ട് അതിനാൽ ഫേസ് വോൾട്ടേജ് എന്നത് 1√ 3 തവണ ലൈൻ വോൾട്ടേജ് ആയിരിക്കും അപ്പോൾ ഇത് 208 √3 × 10 എന്നായിരിക്കും കാരണം ഇവിടെ ഇമ്പിടൻസ് 10 ആണ് അതിനാൽ IL 12 ആംപിയർ എന്ന് ലഭിക്കും അങ്ങനെയെങ്കിൽ P1 VL √ cos 30 o എന്നാകും ഈ 36 87o ആണ് അതിനാൽ P1 208 × 12 × cos 30o 36 അതായത് P1 980 48 Watt എന്ന് ലഭിക്കും സമാനമായി P2 VL IL cos ആണ് അപ്പോൾ ഇത് P2 VL എന്നത് 208 IL നമുക്ക് 12 എന്നും കിട്ടി cos 30o 36 അപ്പോൾ ഇതിന്റെ ഉത്തരം 2478 1 Watt എന്നാണ് ഇനി P2 P1 ആയതിനാൽ അതിനർത്ഥം ഇത് ഇൻഡക്റ്റീവ് ലോഡ് ആണ് അതുപോലെ മൊത്തം പവർ PT P1 P2 ഇത് കൂട്ടുകയാണെങ്കിൽ നമുക്ക് 3 4586 KW എന്ന് ലഭിക്കും ഇനി QT √ 3 √ 3 × P2 P1 എന്നത് 1497 6 ആകും കാരണം P2 വും P1 ഉം ഇവിടെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് 1497 6 VAr എന്ന് ലഭിക്കും അതിനാൽ QT 2 594 kVAr ഇനി ഇത് ഒരു എക്സസൈസ് ആണ് ഇതിന്റെ ഉത്തരങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട് ഇതിന്റെ ലോഡ് ഡെൽറ്റയാണ് ഇത് സോൾവ് ചെയയ്ത് ഉത്തരം ശരിയാണെന്ന് ഉറപ്പ് വരുത്തുക ഇനി ഇത് വളരെ രസകരമായ പ്രോബ്ലം ആണ് രണ്ട് സന്തുലിതമായ ലോഡുകൾ 240 kV യും ഫ്രീക്വൻസി 60 Hz ഉം ഉള്ള ലൈനിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട് ഇത് ഫിഗർ 32 ൽ കാണിച്ചിട്ടുണ്ട് ലോഡ് 1 0 6 ലാഗിങ്ങിൽ 30 KW വലിക്കുന്നുണ്ട് അതിനാൽ പവർ ഫാക്ടർ നൽകിയിട്ടുണ്ട് ഇതിൽ നിന്ന് ആഗിരണം ചെയ്ത റിയാക്ടീവ് പവർ കണ്ടെത്താനാവും കൂടാതെ രണ്ടാമത്തെ ലോഡ് 0 8 ലാഗിംഗ് പവർ ഫാക്ടറിൽ 45 k VAr വലിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇത് 45 kVAr ആണെന്ന് നൽകിയിട്ടുണ്ട് അതിനാൽ 0 8 പവർ ഫാക്ടറിൽ നമുക്ക് P കണ്ടെത്തണം അതുപോലെ VAr ൽ നിന്ന് Q ഉം കണ്ടെത്തണം അതിനാൽ ഇവിടെ ആദ്യം ലോഡ് ആഗിരണം ചെയ്ത കോംപ്ലക്സ് റിയൽ റിയാക്ടീവ് പവർ നിർണ്ണയിക്കണം b ലൈൻ കറണ്ട് നിർണ്ണയിക്കുക 9 ലാഗിംഗ് പവർ ഫാക്ടർ ഉയർത്താൻ ലോഡിന് സമാന്തരമായിട്ടുള്ള Δ കണക്റ്റഡ് ആയ മൂന്ന് കപ്പാസിറ്ററുകളുടെ kVAr റേറ്റിംഗും Cp യുടെ മൂല്യവും നിർണ്ണയിക്കുക അപ്പോൾ ഇതാണ് ഡയഗ്രം ഇതിൽ ലോഡുകളുണ്ട് ഇവയാണ് ലൈൻ a b c ഇവിടെ മൂന്ന് ലൈനുകളുണ്ട് ഈ ലോഡുകൾ ബന്ധിപ്പിച്ചിട്ടുണ്ട് ഇത് സന്തുലിത ലോഡ് 1 ആണ് ഇത് സന്തുലിത ലോഡ് 2 ആണ് ഇത് കപ്പാസിറ്ററുകൾ ഇല്ലാതെയാണ് ഇത് ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് കരുതുക ഇനി ഈ കപ്പാസിറ്റർ ഡെൽറ്റ രൂപത്തിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഈ പ്രോബ്ലത്തിൽ പരാമർശിച്ചിരിക്കുന്നത് 0 9 ലാഗിംഗ് പവർ ഫാക്ടർ ഉയർത്താൻ ലോഡിന് സമാന്തരമായിട്ടുള്ള Δ കണക്റ്റഡ് ആയ മൂന്ന് കപ്പാസിറ്ററുകളുടെ kVAr റേറ്റിംഗ് കണ്ടെത്താനാണ് അതിനാൽ പവർ ഫാക്ടർ നൽകിയിട്ടുണ്ട് ആദ്യത്തെ ലോഡിന്റെ പവർ ഫാക്ടർ 0 6 ലാഗിംഗ് ആണ് അതുപോലെ രണ്ടാമത്തെ ലോഡിന്റെ 0 8 ലാഗിംഗുമാണ് അപ്പോൾ ഇതാണ് തന്നിട്ടുള്ളത് ഇതാണ് ഫിഗർ 32 ഈ കപ്പാസിറ്ററിന്റെ കാര്യം നമുക്ക് പിന്നീട് നോക്കാം ഇതാണ് കറണ്ട് Ia ഇത് Ib ഈ Ia യിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ Ia1 ലേക്കും Ia2 ലേക്കും പോകുന്നുണ്ട് ഇത് നമുക്ക് പിന്നീട് നോക്കാം ഇത് സന്തുലിത ലോഡ് 1 ആണ് ഇത് സന്തുലിത ലോഡ് 2 ആണ് ഇത് അടിസ്ഥാനപരമായി പാരലൽ സർക്യൂട്ട് ആണ് മൂന്ന് ഫേസുകളും പാരലൽ സർക്യൂട്ടിലാണ് അതിനർത്ഥം Ia Ia1 Ia2 സമാനമായി Ib Ic യിൽ 120o ഫേസ് ഷിഫ്റ്റ് വഴി എളുപ്പത്തിൽ ചെയ്യാനാകും കാരണം ഇതൊരു സന്തുലിതമായ സിസ്റ്റം ആണ് അതിനാൽ ഇതിന്റെ അളവ് അതുപോലെ തുടരും അപ്പോൾ Ia Ia1 Ia2 kcl അതിനർത്ഥം ലോഡ് 1 ൽ P1 30 KW ഉം cos1 0 6 ഉം ആണെങ്കിൽ അതിനർത്ഥം sin 1 0 8 ആണ് അതിനാൽ S1 അപാരന്റ് പവർ P1 cos 1 അത് KVA ആയിരിക്കും അതുപോലെ Q1 S1 sin 50 × 0 8 40 kVAr ആണ് അതുകൊണ്ട് തന്നെ P1 j Q1 എന്നത് കിലോ വോൾട്ട് ആംപിയറിന്റെ അടിസ്ഥാനത്തിൽ 30 j 40 KVA ആയിരിക്കും സമാനമായി ലോഡ് 2 ന് Q2 45 kVAr എന്ന് നൽകിയിട്ടുണ്ട് കണ്ടെത്താനുള്ളത് P ആണ് ലാഗിംഗ് പവർ ഫാക്ടർ എന്നാൽ കറണ്ട് ലാഗിംഗാണെന്നാണ് അതിനാൽ cos 2 0 8 ഉം sin 2 0 6 ഉം ആണ് അതിനാൽ S2 Q2 sin2 45 0 6 75 KVA ആണ് 8 60KW അതിനാൽ P2 j Q2 60 j 45 KVA ആണ് ഇനി മൊത്തം കോംപ്ലക്സ് പവർ P j Q എന്നത് P1 P2 j Q1 Q2 എന്നായിരിക്കും അത് 90 j 85 KVA എന്ന് ലഭിക്കും അതിനാൽ P j Q എന്നതിൽ 902 852 എന്നതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് 123 8 എന്നും ആംഗിൾ 43 36o KVA എന്നായിട്ട് കിട്ടും അതായത് ഇത് VI cos VI sin രൂപത്തിലാണ് ഇനി ഇത് 123 8 KVA ആണ് ഇനി നമുക്കറിയാം √ 3 VL IL1 cos 1 P1 അതിനാൽ IL1 30 ആണ് ഇത് കിലോ വാട്ടിലാണ് ഇത് √ 3 × 240 × 0 അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ 120 28 മില്ലി ആംപിയർ ആയിരിക്കും ഇത് കിലോ വാട്ടിലാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 120 28 മില്ലി ആംപിയർ എന്ന് ലഭിക്കും 1 cos 1 0 13o മാത്രമല്ല കറണ്ട് ലാഗിംഗ് ആണ് അതിനാൽ 120 28 ആംഗിൾ 53 13o മില്ലി ആംപിയർ സമാനമായി IL2 60 √ 3 × 240 × 0 42 മില്ലി ആംപിയർ 60 കിലോ വാട്ടിലാണ് ഇത് കിലോവോൾട്ടിലാണ് അതിനാൽ ആത്യന്തികമായി ഇത് ആംപിയറിലായിരിക്കും അതിൽ നിന്ന് മില്ലി ആംപിയറിൽ എഴുതാം അത് 180 42 മില്ലി ആംപിയർ ആയിരിക്കും അതുപോലെ 2 36 86o ആയിരിക്കും അത് ലാഗിംഗായിരിക്കും അതിനാൽ Ia2 180 42 ആംഗിൾ 36 87o മില്ലി ആംപിയർ എന്നായിരിക്കും അതിനാൽ KCL പ്രയോഗിക്കുമ്പോൾ മൊത്തം കറണ്ട് Ia Ia1 Ia2 ആയിരിക്കും അത് ചെയ്യുമ്പോൾ നമുക്ക് 297 8 ആംഗിൾ 43 36 o മില്ലി ആംപിയർ എന്ന് ലഭിക്കും അതിനാൽ Ib 120o ഫേസ് ഷിഫ്റ്റ് ആകുമ്പോൾ Ia ആംഗിൾ 120o എന്നായിരിക്കും അത് 297 8 ആംഗിൾ 163 36o മില്ലി ആംപിയർ എന്ന് കിട്ടും സമാനമായി Ic Ia ആംഗിൾ 120o 297 8 ആംഗിൾ 76 64o മില്ലി ആംപിയർ ഇനി Qc P ഇത് cos യാണ് ഇതിന്റെ പവർ ഫാക്ടർ നമുക്ക് 0 9 ലേക്ക് ഉയർത്തണം അതിനാൽ new 25 അതിൽ നിന്ന് Qc യുടെ പ്രയോഗം കണ്ടെത്താം ഇത് നിങ്ങൾ ഒരു പവർ ത്രികോണം വരച്ച് സ്വയം ചെയ്യുക ഇത് നിങ്ങൾക്ക് ഞാൻ വിട്ട് തരുകയാണ് അപ്പോൾ Qc 41 4kVAr എന്നായിരിക്കും മറ്റൊരു കാര്യം കൂടി ഉണ്ട് കപ്പാസിറ്റർ Cp യുടെ മൂല്യം ഇവിടെ കണക്ക് കൂട്ടിയിട്ടില്ല ഇതൊരു Δ കണക്റ്റഡ് കപ്പാസിറ്റർ ആണ് ഇതിൽ നിന്ന് Cp യുടെ മൂല്യം കണ്ടെത്തുക അത് മൈക്രോ ഫാരഡയിലായിരിക്കും ഇതിന്റെ ഉത്തരം ഇവിടെ നൽകിയിട്ടില്ല നിങ്ങൾ ഇത് സ്വയം ചെയ്യുക അടുത്തത് റിയാക്ടീവ് പവറിന്റെ അളവ് ആണ് അതേ വാട്ട് മീറ്റർ ഉപയോഗിച്ച് റിയാക്ടീവ് പവറിന്റെ അളവ് അളക്കുന്നതാണ് ഈ കേസിൽ നമ്മൾ എന്താണ് കണ്ടെത്തുകയെന്നാൽ കറണ്ട് കോയിൽ ഒരു ഫേസിലും ഫേസർ കോയിൽ മറ്റൊരു ഫേസിലും ആയിരിക്കണം ബന്ധിപ്പിക്കുന്നത് ചിലപ്പോൾ നമ്മൾ വാട്ട് മീറ്റർ M L എന്നായിട്ടെഴുതും ഇത് മെയിൻ വശവും ഇത് ലോഡ് വശവുമാണ് ചിലപ്പോൾ ഇതിനെ C V എന്നായിട്ടും എഴുതും പക്ഷെ റസിസ്റ്റൻസ് വളരെ കൂടുതലാകുമ്പോൾ ഇതിലൂടെ ഒഴുകുന്ന ഏകദേശം എല്ലാ കറണ്ടുകളും തുല്യമായിരിക്കും ഒരേ വാട്ട് മീറ്റർ ഉപയോഗിച്ച് റിയാക്ടീവ് പവർ അളക്കാൻ നമ്മൾ കറണ്ട് കൊയിലിനെ ഒരു ഫേസിൽ ഇടുകയാണ് ചെയ്യാറ് ഫേസ് a യിലാണ് ഞാൻ കറണ്ട് കോയിൽ ഇട്ടതെന്ന് കരുതുക അതിൽ കറണ്ട് Ia ആണ് അത് പോലെ ഫേസർ കോയിൽ C V മറ്റ് രണ്ടു കോയിലുകളായ b യിലും c യിലും ആണ് ബന്ധിപ്പിച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് നമുക്ക് റിയാക്ടീവ് പവർ ലഭിക്കും അത് എങ്ങനെയെന്ന് കണ്ടെത്താനാണ് ചോദ്യം അതിനാൽ ഇത് ZY ZY ZY ആണ് ഈ A a യും ഇത് c യും ഇത് b യും ആണ് അപ്പോൾ അതേ കറണ്ട് Ia ആണ് ഇതിലൂടെ ഒഴുകുന്നത് Ia VAN ആംഗിൾ 0 ഇതാണ് VAN ഇത് n ആണ് ഇതെല്ലാം അതു തന്നെയാണ് Ia എന്നത് VAN ആംഗിൾ 0 ZY VAN ആംഗിൾ 0 Zആംഗിൾ VAN Z ആംഗിൾ ഇതാണ് Ia സമാനമായി Ib യും Ic യും ലഭിക്കും ഇവിടെ ചോദ്യം നിങ്ങളിത് ബന്ധിപ്പിക്കുമ്പോൾ റിയാക്ടീവ് പവറിന്റെ മൂല്യം എന്തായിരിക്കും എന്നതാണ് ഈ കേസിൽ നമുക്ക് ഫേസർ ഡയഗ്രം വരക്കാം ഇനി ഇതാണ് Vab എന്ന് വെക്കുക അതുപോലെ ഇതാണ് Van കറണ്ട് Van ൽ നിന്ന് ആംഗിൾ ലാഗ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ ഈ ഡയഗ്രത്തിൽ നോക്കിയാൽ വാട്ട് മീറ്ററിൽ ഇത് കറണ്ട് Ia യും വോൾട്ടേജ് Vbc യുമാണ് Vbc ക്കും Ia ക്കും ഇടയിൽ ഒരു ആംഗിൾ ഉണ്ടാകും കാരണം ഈ ഫേസർ കോയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് b c യിലാണ് ഇത് Vbc യും Ia യും അളക്കും Ia ക്കും Vbc ക്കും ഇടയിലുള്ള ആംഗിൾ ആണ് നമുക്ക് വേണ്ടത് അതിനർത്ഥം ഇവിടെ ഈ ഫേസർ ഡയഗ്രത്തിൽ ഇതാണ് Vab ഇതാണ് Van Ia ആംഗിൾ ലാഗ് ചെയ്യുന്നുണ്ട് കൂടാതെ ഇതാണ് Vbc യും Vab യും Vab ക്കും Vbc ക്കും ഇടയിലുള്ള ആംഗിൾ 120o ആണ് ഈ Van നും Vbc ക്കും ഇടയിലുള്ള ആംഗിൾ 90o ആണ് ഈ ആംഗിൾ ആണ് അതിനാൽ ഈ ആംഗിൾ 90o ആണ് അതിനാൽ വാട്ട് മീറ്റർ റീഡിങ് |Vbc| |Ia| cos VL IL sin പക്ഷെ നമ്മുടെ റിയാക്ടീവ് പവർ √ 3 VL IL sinആണ് അതിനാൽ ഈ റീഡിങ് √ 3 കൊണ്ട് ഗുണിക്കണം കണക്റ്റ് റീഡിങ് ലഭിക്കാൻ അതിനാൽ റിയാക്ടീവ് പവർ അളക്കുന്നതിന് നിങ്ങൾക്ക് ഇതേ വാട്ട് മീറ്റർ ഉപയോഗിക്കാം അതിനാൽ വാട്ട് മീറ്റർ കാലിബ്രെയ്റ്റ് ചെയ്യാൻ കഴിയും അത് ത്രീ ഫേസ് റിയാക്ടീവ് പവർ √ 3 യുടെ ഒരു ഗുണന ഘടകം കൊണ്ട് സൂചിപ്പിക്കാനാവും അതിനാൽ നിങ്ങൾക്ക് കിട്ടുന്ന റീഡിങ് എന്തുതന്നെയാണെങ്കിലും അത് √3 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് റിയാക്ടീവ് പവർ ലഭിക്കും അപ്പോൾ ഇതാണ് റിയാക്ടീവ് പവർ ലഭിക്കുന്നതിനുള്ള വാട്ട് മീറ്ററിന്റെ കണക്ഷൻ ഇനി ഇവിടെ ഒരു എക്സസൈസ് തന്നിട്ടുണ്ട് ഈ പ്രോബ്ലം എനിക്ക് ഒരു നോട്ട്ബുക്കിൽ നിന്ന് കിട്ടിയതാണ് ഇത് A B C ആണെന്ന് വെക്കുക ഈ ഫേസ് ഓപ്പൺ ആണ് അതിനാൽ ഇത് j 100 Ω ഉം ഇത് 100 Ω ഉം ആണ് കൂടാതെ ഈ A B C എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട് നമുക്ക് കണ്ടത്തേണ്ടത് VOB ആണ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് VOB ആണ് അതിനാൽ സിസ്റ്റം 208 വോൾട്ടും a b c സീക്വൻസും ആണെങ്കിൽ VOB കണ്ടെത്തുക 208 വോൾട്ട് എന്നാൽ അത് ലൈൻ ടു ലൈൻ ആണ് ഇവിടെ ഉത്തരം നൽകിയിട്ടുള്ളത് 284 ആംഗിൾ 150o volt ആണ് ഉത്തരം ശരിയാണ് നിങ്ങളിത് കണ്ടെത്താൻ ശ്രമിക്കുക ഇത് വളരെ എളുപ്പമുള്ള എന്നാൽ രസകരമായ ഒരു പ്രോബ്ലം ആണ് ഇത് മറ്റൊരു എക്സസൈസ് ആണ് ഒരു ത്രീ ഫേസ് ത്രീ വയർ 220 Volt a b c സിസ്റ്റത്തിന്റെ ലൈൻ കറണ്ടുകളായ Ia യും Ib യും Ic യും ഇവിടെ തന്നിട്ടുണ്ട് താഴെ കൊടുത്ത ലൈനുകളിലെ വാട്ട് മീറ്ററിന്റെ റീഡിങ് കണ്ടെത്തുക a and b b and c a and c അതായത് വാട്ട് മീറ്റർ a യിലും b യിലും ബന്ധിപ്പിച്ച് റീഡിങ് കണ്ടെത്തുക വാട്ട് മീറ്റർ b യിലും c യിലും ബന്ധിപ്പിച്ച് റീഡിങ് കണ്ടെത്തുക വാട്ട് മീറ്റർ a യിലും c യിലും ബന്ധിപ്പിച്ച് റീഡിങ് കണ്ടെത്തുക ഇതിന്റെ ഉത്തരങ്ങൾ എല്ലാം ഇവിടെ തന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ റീഡിങ്ങുകൾ വ്യത്യസ്തമാവുന്നത് എന്ന് കണ്ടെത്തുക ഇനി ത്രീ ഫേസ് സർക്യൂട്ട് അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഉദാഹരണത്തിന് ഒരു സർക്യൂട്ടിന്റെ ഇമ്പിടൻസ് Z √ j Ω എന്ന് തന്നിട്ടുണ്ടെന്ന് കരുതുക എങ്കിൽ R ന്റെ മൂല്യം എത്ര X ന്റെ മൂല്യം എത്ര എന്നത് കണ്ടെത്തണം j 0 1 × j എന്നായിട്ടെഴുതാം അതിൽ 0 cos π 2 എന്നായിട്ടും 1 എന്നതിനെ ഈ j ഇവിടെ ഉള്ളത് കൊണ്ട് j sin π 2 എന്നായിട്ടും എഴുതാം അതിനർത്ഥം യഥാർത്ഥത്തിൽ ഇതിനെ നിങ്ങൾക്ക് e j 𝜋 2 എന്നായിട്ട് എഴുതാം അപ്പോൾ j e j π 2 എന്നാണ് ഇത് കോംപ്ലക്സ് സംഖ്യ ആണ് അതിനർത്ഥം Z √ j j 1 2 e j 𝜋 2 ½ e j 𝜋 4 cos π 4 j sin π 4 1 √ 2 j 1 √2 അതിനർത്ഥം R 1 √ 2 Ω എന്നും X 1 √ 2 Ω എന്നുമാണ് അപ്പോൾ ഇത് ഇങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത് മറ്റൊരു കാര്യം എന്തെന്നാൽ നിങ്ങളോട് ആരെങ്കിലും j j എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ j എന്താണെന്ന് ഇപ്പോൾ നമ്മൾ കണ്ടെത്തി

യഥാർത്ഥത്തിൽ j2 1 ആണ് അതിനാൽ e 𝜋 2 എന്നാകും ഇത് ഒരു റിയൽ നമ്പർ ആണ് അതിനർത്ഥം j j എന്നത് ഒരു റിയൽ നമ്പർ ആണ് അത് e 𝜋 2 ആണ് അതിനാൽ ഇതോട് കൂടി ത്രീ ഫേസ് എ സി സർക്യൂട്ട് ഭാഗം തീർന്നിരിക്കുന്നു അടുത്തത് നമ്മൾ മാഗ്നറ്റിക് സർക്യൂട്ട് എടുക്കും അതിനു ശേഷം സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമറും ത്രീ ഫേസ് ഇൻഡക്ഷൻ മെഷീനും ഡിസി മെഷീനുകളും കുറച്ച് നോക്കുന്നതാണ് എല്ലാവർക്കും വളരെയധികം നന്ദി